ഹായ് സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻപിടിഇഎൽ മൂക്കിന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ടി കാൺപൂരിൽ നിന്നുള്ള രവി ചന്ദ്രൻ ആണ് എട്ടാം ആഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നത് ഇത് മൊഡ്യൂൾ 2 പ്രഭാഷണ നമ്പർ 44 ആണ് അതിനാൽ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അവതരണ വൈദഗ്ധ്യത്തോടെ ആരംഭിച്ചു മുമ്പത്തേതിൽ നിങ്ങളുടെ ഭയത്തെ എങ്ങനെ മറികടക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ധാരാളം പ്രായോഗിക നുറുങ്ങുകൾ നൽകി ഇപ്പോൾ നിങ്ങൾ ആത്മവിശ്വാസം വളർത്താൻ ഇത് ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിച്ചുകഴിഞ്ഞാൽ അടുത്ത ഘട്ടം പ്രസംഗങ്ങൾ നടത്തുകയും ഒരു പ്രൊഫഷണലാകുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രൊഫഷണൽ പബ്ലിക് സ്പീക്കർ ആകാമെന്നും നിങ്ങൾക്ക് എങ്ങനെ പ്രൊഫഷണൽ വാക്കാലുള്ള അവതരണങ്ങൾ നൽകാമെന്നും നോക്കാം ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് നമുക്ക് പെട്ടെന്ന് അവലോകനം ചെയ്യാം ഞാൻ പൊതുവെ അവതരണ വൈദഗ്ധ്യത്തിൽ നിന്നാണ് ആരംഭിച്ചത് തുടർന്ന് ഭയത്തെ മറികടക്കുന്നതിലും നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വളർത്താം എന്നതിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഭാഷ പരിഗണിക്കാതെ നിങ്ങൾ ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിച്ചാലും നിങ്ങൾ തമിഴോ ബ്രിട്ടീഷ് ഇംഗ്ലീഷോ സംസാരിച്ചാലും നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ പരിഗണിക്കാതെ പരസ്യമായി സംസാരിക്കാൻ ഭയപ്പെടുന്നത് ഒരു മാനുഷിക പ്രവണതയാണ് എന്ന വസ്തുത ഞാൻ എടുത്തുപറഞ്ഞു അടിസ്ഥാനപരമായി മൂന്ന് പ്രാഥമിക ഉദ്ദേശ്യങ്ങൾ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ഇതിനെ ഭയപ്പെടുന്നത് ഒന്ന് ഞാൻ പൊതു നാണക്കേടിലാക്കപ്പെടുമെന്ന് ഭയപ്പെടുന്ന അപമാനമാണ് രണ്ടാമത്തേത് അപരിചിതത്വം നിങ്ങൾ ആളുകളോട് സംസാരിക്കുന്നത് പതിവാണ് പരിചിതമായ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർ എന്നാൽ അജ്ഞാതമായ സ്ഥലങ്ങളിലും വ്യത്യസ്ത വേദികളിലുമുള്ള ആളുകളുമായി സംസാരിക്കുന്നത് അപരിചിതമാണ് പിന്നെ അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ഈ ഭയം അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കാം പരിശീലനം ലഭിച്ച പരിചയസമ്പന്നരായ അഭിനേതാക്കൾക്കും പ്രൊഫഷണലുകൾക്കും പോലും ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യങ്ങൾ തെറ്റായി സംഭവിക്കാം നിർഭാഗ്യം എന്ന് വിളിക്കപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടാകാമെന്നും അത് എന്തെങ്കിലും ചെയ്തേക്കാമെന്നും ഉള്ള ഭയം അത് എന്റെ അവതരണത്തെ കൂടുതൽ സഹായിക്കും അപ്പോൾ പ്രകടനത്തിന്റെ കാര്യത്തിൽ ഒരു പരിപൂർണ്ണതാവാദിക്ക് ഈ ചെറിയ ഉത്കണ്ഠയുള്ള ഭയം ഉണ്ട് എന്നാൽ നിങ്ങൾ ചില ഘട്ടങ്ങൾ പിന്തുടരുകയും വേദിയിലേക്ക് പോകുകയും ആ ഘട്ടങ്ങൾ പിന്തുടർന്ന് ധൈര്യത്തോടെ പ്രകടനം ആരംഭിക്കുകയും ചെയ്താൽ ഈ കാര്യങ്ങൾ മറികടക്കും അത് അപ്രത്യക്ഷമാകും ഇപ്പോൾ ഭയത്തെ മറികടക്കാൻ നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന നടപടികൾ എന്തൊക്കെയാണ് ഒന്നാമതായി നിങ്ങൾ ആത്മവിശ്വാസം നിലനിർത്തേണ്ടത് പ്രധാനമാണ് ആത്മവിശ്വാസമുള്ളവരായിരിക്കുകയും സ്വയം ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഓരോ ദിവസവും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക നിങ്ങളുടെ പദാവലി വികസിപ്പിക്കുക നിങ്ങളുടെ അവതരണ രീതി വികസിപ്പിക്കുക ആളുകളെ നിരീക്ഷിക്കുക സംസാരിക്കാനും ആളുകളുമായി സംസാരിക്കാനും സന്നദ്ധത പ്രകടിപ്പിക്കുന്ന കഠിനമായ നിങ്ങൾ ആളുകളെ നിരീക്ഷിക്കുകയും സംസാരിക്കാനും ആളുകളുമായി സംസാരിക്കാനും സന്നദ്ധത പ്രകടിപ്പിക്കുന്ന കഠിനമായ സാഹചര്യങ്ങളിൽ സ്വയം നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനാൽ ഓരോ ദിവസവും എന്തെങ്കിലും ചെയ്യുക തുടർന്ന് ഒരു ചെറിയ അനൌപചാരിക തലത്തിൽ പരിശീലിക്കാൻ ആരംഭിക്കുക തുടർന്ന് ഈ പോരാട്ടം അല്ലെങ്കിൽ പറക്കൽ സാഹചര്യം നിങ്ങളുടെ അടുത്തേക്ക് വരികയും സാഹചര്യത്തോട് പോരാടുകയും ചെയ്യുക സംസാരിക്കുന്നതിനും ഈ ആന്തരിക ഊർജ്ജമായ അഡ്രിനാലിൻ നിങ്ങളിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് തുടരുക പ്രസംഗം നൽകുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആളുകൾ ശരിക്കും ശ്രദ്ധിക്കുന്നില്ലെന്ന് അറിയുന്നത് നിങ്ങളുടെ ഭയത്തെ മറികടക്കാൻ സഹായിക്കുന്നു അതുപോലെ വിഷയം നന്നായി അറിയുന്നതും അതിൽ വിശ്വസിക്കുന്നതും നിങ്ങളുടെ ഭയത്തെ മറികടക്കുന്നതിനുള്ള മറ്റൊരു താക്കോലാണ് തയ്യാറെടുപ്പും പരിശീലനവും ഇവിടെ കുറുക്കുവഴികളൊന്നുമില്ല നിങ്ങൾ അത് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ വേദിയിലെത്തുമ്പോൾ ശാന്തമായ ഒരു മാനസികാവസ്ഥ നിലനിർത്തണം അതിനാൽ ശ്വസന വ്യായാമങ്ങൾ ഒരു സംഭാഷണം നൽകുന്നതിനുമുമ്പ് സാധാരണ വ്യായാമം എന്നിവയും നിങ്ങളുടെ ഞരമ്പുകളെ വളരെ ശാന്തവും നിയന്ത്രിതവുമായ രീതിയിൽ നിലനിർത്താൻ സഹായിക്കുന്നു അടുത്ത പ്രധാന കാര്യം പ്രേക്ഷകരോട് സഹാനുഭൂതിയുള്ളവരായിരിക്കുക അവരുടെ സമയത്തെ വിലമതിക്കുക അവരുടെ സാന്നിധ്യത്തെ വിലമതിക്കുക അവരുടെ അറിവിനെ ബഹുമാനിക്കുക എന്നിവയാണ് അതിനാൽ തയ്യാറെടുക്കുമ്പോൾ പോലും നിങ്ങൾ വരാൻ പോകുന്ന പ്രേക്ഷകരുടെ തരവും അവരുടെ സംവേദനക്ഷമതയും ബുദ്ധിശക്തിയും അറിയണം അവരുടെ സമയത്തെ ബഹുമാനിക്കുക നിങ്ങൾ ഒരു ബോറടിപ്പിക്കുന്ന പ്രസംഗം നൽകുമെന്ന് ഒരിക്കലും കരുതരുത് അത് കഴിയുന്നത്ര കഴിയുന്നത്ര വിവരദായകമാക്കുക പ്രേക്ഷകർ നിങ്ങളുടെ പ്രഭാഷണത്തിനായി കാത്തിരിക്കാൻ തുടങ്ങും മൊത്തത്തിൽ നിങ്ങൾ ഒരു പ്രഭാഷണം നടത്താൻ പോകുമ്പോൾ അവസാനത്തേതും ആദ്യത്തേതുമായ കാര്യം ഡെലിവറി ദൃശ്യവൽക്കരിക്കുക എന്നതാണ് നിങ്ങൾ നന്നായി തയ്യാറായതിനാൽ നിങ്ങളുടെ പ്രഭാഷണത്തിന്റെ അവസാനം നിങ്ങൾക്ക് കയ്യടി ലഭിക്കുമെന്ന് കരുതുക നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡിംഗ് അവേഷൻ ലഭിക്കുമെന്ന് കരുതുക അതിനാൽ നിങ്ങൾ ഈ ദൃശ്യവൽക്കരണവുമായി പോയാൽ ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ അവിടെ പോയി ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുകയും പ്രേക്ഷകരിൽ നിന്ന് അർഹമായ പ്രശംസ നേടുകയും ചെയ്യും ഇപ്പോൾ ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രൊഫഷണൽ പൊതുനേതാവാകാൻ കഴിയുമെന്ന് നോക്കാം ഞാൻ ഹ്രസ്വമായി ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ദ്രുത അവലോകനം വേദി കാണുക കാഴ്ചക്കാരനെ സ്വാഗതം ചെയ്യുക നിങ്ങളുടെ മെറ്റീരിയലിൽ പ്രാവീണ്യം നേടുക നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക സംസാരിക്കുന്നത് സ്വയം ദൃശ്യവൽക്കരിക്കുക ഇവ വിശദമായി പരിശോധിക്കാം ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വേദിയിൽ പോയി നിങ്ങളുടെ പ്രസംഗം നടത്തുന്നതിനുമുമ്പ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക ജനങ്ങൾക്ക് വിജയിക്കുന്ന ഒരു നേതാവിനെ വേണമെന്ന് ആദ്യം മനസ്സിലാക്കുക അതിനാൽ നിങ്ങൾ ഒരു പ്രഭാഷണം നടത്താൻ പോകുമ്പോൾ അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ നേതാവായി കണക്കാക്കുകയും അവർ അവിടെ അനുയായികളായി ഇരിക്കുകയും ചെയ്യുന്നു ആരെങ്കിലും നിങ്ങളോട് പ്രശ്നകരമായ ഒരു ചോദ്യം ചോദിക്കുമ്പോഴും പ്രശ്നകരമായ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അവർക്ക് അറിയാമെങ്കിലും നിങ്ങൾ ആദ്യം അതിന് ഉത്തരം നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ചില ആളുകൾ നിങ്ങൾ ഉത്തരം നൽകാൻ പാടുപെടുന്നത് കാണുകയോ അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് ഉത്തരം നൽകാമായിരുന്നുവെന്ന് അവർ കരുതുകയോ ചെയ്താൽ മാത്രം മതി കാരണം നിങ്ങൾ പ്രഭാഷണം നടത്തുമ്പോൾ നിങ്ങൾ നേതാവാണെന്ന് അവർ നിങ്ങൾക്ക് ആ പങ്ക് നൽകുന്നു അതിനാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നു അതിനാൽ ആത്മാഭിമാനം കുറഞ്ഞ വ്യക്തിയോടൊപ്പം അവിടെ പോകരുത് ഒരിക്കൽ നിങ്ങൾ പോയി ഒരു പ്രഭാഷണം നടത്തിയാൽ നിങ്ങൾ തന്നെയാണ് നേതാവ് ക്ഷമിക്കണം ക്ഷമിക്കണം ഞാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നത് ഒഴിവാക്കേണ്ടതിന്റെ മറ്റൊരു കാരണം അതാണ് വാസ്തവത്തിൽ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പ്രസംഗം നടത്തരുത് നിങ്ങൾ നന്നായി തയ്യാറാണെങ്കിൽ മാത്രമേ പോയി പ്രസംഗം നടത്താവൂ പോയി അവരോട് ഓ ക്ഷമിക്കണം എനിക്ക് തയ്യാറെടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഈ പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നമുണ്ട് എന്റെ വയറ്റിൽ ചില ചിത്രശലഭങ്ങൾ പറക്കുന്നതായി എനിക്ക് തോന്നുന്നുവെന്ന് പറഞ്ഞ് നിങ്ങൾ പരിഭ്രാന്തനാണെന്ന വസ്തുതയ്ക്ക് വീണ്ടും ക്ഷമ ചോദിക്കുന്നു അതിനാൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് വളരെ അസ്വസ്ഥത തോന്നുന്നു നിങ്ങളെല്ലാവരും വളരെ മികച്ച ആളുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാരണത്താൽ മാപ്പ് പറയരുത് അവരുടെ ശ്രദ്ധ നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളിൽ ഒരു പരിഭ്രാന്തിയും കാണാൻ പോകുന്നില്ല അതിനാൽ അത് ചെയ്യരുത് തുടർന്ന് ക്ഷമ ചോദിക്കുന്നത് ഒരു തുടക്കമെന്ന നിലയിൽ ശരിക്കും മോശമാണ് അതിനാൽ അത് ചെയ്യരുത് നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ സന്ദേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ എന്താണ് നൽകാൻ പോകുന്നത് ഉള്ളടക്കം മാധ്യമമല്ല നിങ്ങൾ എന്തെങ്കിലും അറിയിക്കാൻ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ എന്റെ ഉച്ചാരണം തെറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വിഷമിക്കേണ്ടതില്ല ഞാൻ വ്യാകരണ തെറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും ഞാൻ ബോർഡിൽ എന്തെങ്കിലും എഴുതുമ്പോൾ അക്ഷരപ്പിശക് തെറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും ഡെലിവറി സമയത്ത് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല കാരണം പ്രേക്ഷകർ പോലും അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കുന്നില്ല അവർ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ അവരോട് എന്താണ് പറയാൻ പോകുന്നത് എന്താണ് സന്ദേശം നിങ്ങൾ എങ്ങനെ കൈമാറുന്നു എന്നത് പ്രധാനമാണെന്ന് അറിയാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ശരിയായ കാര്യം അറിയിക്കാൻ നിങ്ങൾ ചില തെറ്റായ നടപടിക്രമങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽപ്പോലും ആളുകൾ തെറ്റായ കാര്യങ്ങളെ അവഗണിക്കാൻ പോകുന്നു കാരണം നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് അവർക്ക് ആശങ്കയില്ല എന്നാൽ നിങ്ങൾ അവർക്ക് എന്ത് സന്ദേശം നൽകാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് അവർ ശരിക്കും ആശങ്കാകുലരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള പരിഭ്രാന്തി അതിനെ പോസിറ്റീവ് എനർജിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക ചെറിയ നാഡീ ഊർജ്ജം സഹായകരമാണ് തുടർന്ന് അനുഭവം നേടുന്നത് തുടരുക ഒരിക്കൽ നിങ്ങൾ ഹാളിൽ പോയാൽ ഞാൻ ഇപ്പോൾ ഒരു നല്ല അവതരണം നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നണം തുടർന്ന് ഞാൻ വരും ഇത് ആദ്യത്തേതും അവസാനത്തേതുമല്ല ഇത് ഒരു തുടക്കം മാത്രമാണ് നിങ്ങൾ ആ കാഴ്ചപ്പാടോടെയാണ് പോകുന്നതെങ്കിൽ പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക വേദി കാണുക നമുക്ക് യഥാർത്ഥത്തിൽ ഭയം ഉണ്ടാകാനുള്ള ഒരു കാരണം അപരിചിതതയാണ് പുതിയ സ്ഥലങ്ങളെയും പുതിയ ചുറ്റുപാടുകളെയും ഞങ്ങൾ ഭയപ്പെടുന്നു ആരും ഇല്ലെങ്കിൽ വേദിയിൽ നിൽക്കുക പോലും ചെയ്യുക ഒരു റിഹേഴ്സൽ നടത്തുക നിങ്ങൾ പ്രൊഫഷണൽ നർത്തകരെയും പ്രൊഫഷണൽ അഭിനേതാക്കളെയും കണ്ടിരിക്കാം അവർക്ക് വേദിയിൽ അവസാന റിഹേഴ്സൽ ഉണ്ടാകും കാരണം അവർ സ്വയം പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നു ഒരു തെറ്റും ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നിങ്ങൾ പോയി സംസാരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുക നിങ്ങൾ ചെറുതായി നടക്കുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു നിങ്ങൾ പോലും സംസാരിക്കുന്നു അതിനാൽ അത് നിങ്ങളെ വളരെ ആത്മവിശ്വാസമുള്ളവരാക്കും നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഒരു അഭിമുഖത്തിലെന്നപോലെ നിങ്ങൾ മെനുവിലേക്ക് പോകണം നിങ്ങൾ വളരെ നേരത്തെ പോകണം അവതരണങ്ങൾ പരിശോധിക്കുക നിങ്ങൾ ഏതുതരം അവതരണമാണ് നൽകാൻ പോകുന്നതെന്ന് പരിശോധിക്കുക മൈക്ക് പോലും എല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ പ്രേക്ഷകർ വരാൻ തുടങ്ങുന്നതിന് വളരെ മുമ്പുതന്നെ അവിടെ ഉണ്ടായിരിക്കുക കാണികളെ സ്വാഗതം ചെയ്യാൻ അവിടെ നിൽക്കുക അതിനാൽ പ്രേക്ഷകർ എത്തുമ്പോൾ നിങ്ങൾക്ക് അവരെ അഭിവാദ്യം ചെയ്യാം പുഞ്ചിരിക്കുക കണ്ണുമായി സമ്പർക്കം പുലർത്തുക അതിനാൽ നിങ്ങൾക്ക് പ്രവേശന കവാടത്തിലോ താഴെയോ നടക്കാനോ നടക്കാനോ കഴിയുമെങ്കിൽ നിങ്ങളുടെ പ്രഭാഷണത്തിലേക്ക് വരുന്നതിന്റെ കാരണങ്ങൾ അറിയാൻ നിങ്ങളുടെ പ്രഭാഷണത്തിലേക്ക് വരുന്നതിന്റെ കാരണങ്ങൾ അറിയാൻ നിങ്ങൾക്ക് അവരോട് ഹലോ ചോദിക്കാം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രദേശം എന്താണ് അപ്പോൾ ഈ സംസാരത്തിലേക്ക് വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ അതിനാൽ ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയും നിങ്ങൾ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പുതന്നെ ഒരു ബന്ധം നിലനിർത്തുകയും ചെയ്യും നിങ്ങളുടെ പ്രസംഗം സ്വീകരിക്കാൻ അവർ ഇതിനകം വഴക്കമുള്ളവരും തുറന്ന മനസ്സുള്ളവരുമാണ് അതിനാൽ ആളുകൾ വേദിയിലെത്തുന്നതിന് മുമ്പുതന്നെ കാഴ്ചക്കാരനെ സ്വാഗതം ചെയ്യുകയും ഒരുതരം ആതിഥേയനായി അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ മെറ്റീരിയലിൽ പ്രാവീണ്യം നേടുക നിങ്ങളുടെ പ്രസംഗമോ അവതരണമോ എത്ര തവണ വേണമെങ്കിലും പരിശീലിക്കുക ഒരു മൾട്ടിനാഷണൽ കമ്പനി ഉണ്ടായിരുന്നു തുടർന്ന് അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് അഭിമുഖം നടന്നു കഴിഞ്ഞ ദിവസം അഭിമുഖത്തിന് വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും അവർ വിളിച്ച് അവരുടെ വാർഷിക റിപ്പോർട്ടിന്റെ വളരെ വലിയ അളവ് നൽകി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നാളെ വരണം തുടർന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന എല്ലാ വസ്തുതകളും നിങ്ങൾ സമഗ്രമായി മനസ്സിലാക്കണം അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒരു പവർ പോയിന്റോ മറ്റോ ഉപയോഗിക്കരുത് മെറ്റീരിയലുകളോ ഉപയോഗിക്കരുത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സമഗ്രമായി മനസ്സിലാക്കണം തുടർന്ന് നിങ്ങൾ വന്ന് 15 മിനിറ്റ് ഒരു അവതരണം നൽകണം ഇപ്പോൾ ഏകദേശം 50 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു പിന്നീട് 20 ഓളം സ്ഥാനാർത്ഥികൾ വന്നില്ല കാരണം അത് വായിക്കുമ്പോൾ പോലും അവർക്ക് ഉറക്കം തോന്നി തുടർന്ന് അവർ നേരത്തെ ഉറങ്ങി അവർ പുകവലിക്കുമെന്ന് ആരെങ്കിലും കരുതി പിന്നെ അവർക്ക് ഇരിക്കാൻ കഴിയും പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം അവർക്ക് നിരാശ തോന്നി ചില വസ്തുതകൾ ഓർക്കാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടായിരുന്നു അത് എഴുതാതെ മനപാഠമാക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ കുറച്ച് മദ്യവും കുറച്ച് പാനീയങ്ങളും കഴിക്കുമെന്ന് ആരെങ്കിലും കരുതി തുടർന്ന് ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയും കുറച്ച് സമയത്തിന് ശേഷം വീണുപോയി അതിനാൽ അത് അങ്ങനെയായിരുന്നു അതിനാൽ അടുത്ത ദിവസം വന്ന 30 പേരിൽ എല്ലാവരോടും ഇത് ഒരേസമയം ചെയ്യാൻ ആവശ്യപ്പെട്ടു അവർ അവരുടെ അവതരണങ്ങളെല്ലാം വെവ്വേറെ റെക്കോർഡുചെയ്യുകയും ഓരോരുത്തരും വെവ്വേറെ കാണുകയും തുടർന്ന് ബോസ് എങ്ങനെയാണെന്ന് മൊത്തത്തിൽ നോക്കുകയും ചെയ്തു ചെയ്യുന്നുവെന്ന് നോക്കുകയായിരുന്നു അതിനാൽ പലരും പരാജയപ്പെട്ടു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതിന്റെ രണ്ട് മൂന്ന് പേജുകൾക്കപ്പുറം പോകാൻ അവർക്ക് കഴിഞ്ഞില്ല ഒടുവിൽ അവർ തിരഞ്ഞെടുത്ത ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ എല്ലാ പേജുകളും സമഗ്രമായി കൈകാര്യം പേജുകളും അവർ ചോദിച്ച ഏത് ക്രോസ് ചോദ്യവും അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞു തുടർന്ന് അദ്ദേഹം വളരെ ആകർഷകമായ ഒരു അവതരണം നൽകി തുടർന്ന് റിപ്പോർട്ട് നോക്കാതെ അവർ ചോദിച്ചതെന്തും അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞു അതിനാൽ മറ്റെല്ലാവർക്കും അത് ചെയ്യാൻ കഴിയാത്തതും നൽകിയിട്ടുള്ള സമയവും തുല്യമായിരിക്കുമ്പോൾ അത് എങ്ങനെ സാധ്യമാകുമെന്ന് അവർ ചോദിച്ചു അതിനാൽ അദ്ദേഹം പറഞ്ഞു സർ ഇത് നൽകിയ അതേ സമയമാണ് പക്ഷേ ഞാൻ മുഴുവൻ സമയവും ഉപയോഗിച്ചു നിങ്ങൾ എനിക്ക് അത് നൽകിയപ്പോൾ ഞാൻ അത് വായിക്കാൻ തുടങ്ങി ഞാൻ ബസിൽ പോകുമ്പോൾ അത് വായിക്കുകയായിരുന്നു അതിനാൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിരുന്നു പക്ഷേ എന്റെ മനസ്സ് പൂർണ്ണമായും ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ കാര്യം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിനാൽ ഞാൻ വേണ്ടത്ര ഉറങ്ങിയില്ല അതിനാൽ ഞാൻ ഏതാണ്ട് രാത്രി മുഴുവൻ ഇരുന്നു അതിനിടയിൽ ഹ്രസ്വമായ ഉറക്കം എടുത്തു തുടർന്ന് രാവിലെ ഞാൻ പരിഷ്കരിച്ചു ഞാൻ അവിടെ ഇരിക്കുമ്പോഴും വിളിക്കായി കാത്തിരിക്കുമ്പോഴും വരുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പരിഷ്കരിച്ചു ഒരു അവസരം പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല കാരണം എനിക്ക് ഈ ജോലി വളരെ അത്യാവശ്യമാണ് എനിക്ക് വളരെ ആത്മാർത്ഥവും സത്യസന്ധവുമായ ഒരു അവതരണം നൽകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങളുടെ മെറ്റീരിയലിൽ പ്രാവീണ്യം നേടുന്നത് പ്രേക്ഷകരെ ആകർഷിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതും പരിശീലിക്കുന്നതും നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നിങ്ങൾ പ്രയോഗിക്കുന്ന സമയം നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണോ ഗൌരവമുള്ളവരാണോ പ്രേക്ഷകരുടെ സമയം നിങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ അവർ നിങ്ങളെ അവഗണിക്കുകയോ ഉയർന്ന ടീമിൽ നിർത്തുകയോ ചെയ്യുമെന്നതിനെ ആശ്രയിച്ച് നിങ്ങൾ അവരെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നേരിട്ട് പ്രേക്ഷകരോട് പറയും അതിനാൽ ഈ സാഹചര്യത്തിൽ അവർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അത്തരമൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിൽ അവർ വളരെ സന്തുഷ്ടരാണ് അതിനാൽ നന്നായി പരിശീലനം തയ്യാറാക്കുക തുടർന്ന് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക അതിനാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പിരിമുറുക്കം ഒഴിവാക്കാൻ വ്യായാമങ്ങളിൽ ഏർപ്പെടുക ആ റോവിംഗ് ടെക്നിക് ശ്വസന സാങ്കേതികത ആഴത്തിലുള്ള ശ്വസനം എന്നിവ ഉപയോഗിക്കുക നിങ്ങൾക്ക് സങ്കീർണ്ണമായവ ചെയ്യേണ്ടതില്ലെങ്കിലും പ്രത്യേകിച്ചും നിങ്ങൾ ഒരു മുറിയിൽ ഇരുന്ന് ശ്വാസംമുട്ടൽ ആണെങ്കിൽ മരത്തിനടിയിൽ അൽപ്പം നടക്കുക തുടർന്ന് ആഴത്തിൽ ശ്വസിക്കുക തുടർന്ന് തിരികെ വരിക അതിനാൽ അത് വീണ്ടും നിങ്ങൾക്ക് വളരെ ശാന്തത നൽകും തുടർന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു നിഷേധാത്മക സംസാരവും ദൃശ്യവൽക്കരിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ ദൃശ്യവൽക്കരിക്കുകയും ഞാൻ പറഞ്ഞതുപോലെ ആരും ഇതുവരെ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഏറ്റവും ശക്തവും അതിശയകരവുമായ പ്രസംഗമാണ് നിങ്ങൾ നൽകുന്നതെന്ന് സങ്കൽപ്പിക്കുക തുടർന്ന് ആളുകൾക്ക് ഒരു വിജയിയായ നേതാവിനെ വേണം കാരണം നിങ്ങൾ വിജയിക്കുകയാണെന്ന് നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ സ്പീക്കറുകൾ വിജയിക്കണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു പ്രേക്ഷകർ പോലും യഥാർത്ഥത്തിൽ കയ്യടിക്കാൻ അവിടെ ഇരിക്കുന്നു അവർ നിങ്ങളുടെ പ്രസംഗത്തിന്റെ മികച്ച ഭാഗത്തിനായി കാത്തിരിക്കുന്നു നിങ്ങളെ അഭിനന്ദിക്കാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളെ വിമർശിക്കാൻ അവർ അവിടെയില്ല അതിനാൽ സ്പീക്കർ നയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്ന പരമാവധി നിങ്ങൾ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു സ്പീക്കർ കാഴ്ചക്കാരെ കൈകാര്യം ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ മാപ്പ് ചോദിക്കുന്നത് ഒഴിവാക്കേണ്ടതിന്റെ കാരണം നിങ്ങളുടെ പരിഭ്രാന്തിയെക്കുറിച്ച് ഒരിക്കലും പരാമർശിക്കുകയോ ക്ഷമ ചോദിക്കുകയോ ചെയ്യരുത് നിങ്ങളുടെ സന്ദേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാധ്യമം ഉത്കണ്ഠകളെ പരിപോഷിപ്പിക്കരുത് മറിച്ച് നിങ്ങളുടെ സന്ദേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടർന്ന് പരിഭ്രാന്തിയെ പോസിറ്റീവ് എനർജി പരിഭ്രാന്തിയായി മാറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുകയും അതിനെ ഊർജ്ജസ്വലതയായും ഉത്സാഹമായും പരിവർത്തനം ചെയ്യുകയും അനുഭവം നേടുകയും ചെയ്യുക ഇത് പൊതു സംസാരത്തിൽ ആത്മവിശ്വാസം വളർത്തുന്ന അനുഭവമാണ് കൂടുതൽ പരിചയസമ്പന്നനായ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും

ഇപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എന്തുചെയ്യണം പൊതുപ്രസംഗത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതിനനുസരിച്ച് നിങ്ങൾ എന്തുചെയ്യണം എന്ന് ചുരുക്കത്തിൽ നോക്കാം അതിനാൽ ലക്ഷ്യങ്ങൾ നാല് വിഭാഗങ്ങളാണ് ഒന്ന് പ്രേക്ഷകരെ രസിപ്പിക്കുകയോ രസിപ്പിക്കുകയോ ചെയ്യുക പ്രേക്ഷകർ തമാശകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു പ്രേക്ഷകർ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു പ്രേക്ഷകർ വിവരണം കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ പ്രേക്ഷകരെ പഠിപ്പിക്കുന്നതിനുള്ള പങ്ക് നിങ്ങൾക്കുണ്ട് അവർക്ക് എന്തെങ്കിലും നൽകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് തുടർന്ന് പൊതുപ്രസംഗത്തിലൂടെ അവർക്ക് നിങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയും അടുത്ത ലക്ഷ്യം ചിലപ്പോൾ പ്രേക്ഷകരെ ഉത്തേജിപ്പിക്കുന്നതിനോ ആകർഷിക്കുന്നതിനോ അല്ലെങ്കിൽ ആരെയെങ്കിലും എതിർത്ത് നിങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നതിനോ പൊതുപ്രസംഗം ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾക്ക് പൊതുപ്രസംഗത്തിൽ വളരെയധികം താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ വായിക്കണം പ്രത്യേകിച്ച് ബ്രൂട്ടസിന്റെയും ആന്റണിയുടെയും പ്രസംഗങ്ങൾ വായിക്കണം തുടർന്ന് അവർക്ക് എങ്ങനെ ജനക്കൂട്ടത്തെ അവരുടെ അനുകൂലമായും ശത്രുക്കൾക്കെതിരായും പ്രകോപിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കാണണം തുടർന്ന് അവർക്ക് പൊതുപ്രസംഗത്തെ വളരെ ശക്തമായ ഉപകരണമായി ഉപയോഗിക്കാൻ കഴിയും പിന്നെ അത് പ്രകോപിപ്പിക്കുക മാത്രമല്ല പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താനോ ബോധ്യപ്പെടുത്താനോ സ്വാധീനിക്കുക നിങ്ങൾക്ക് മാറ്റാൻ പോലും കഴിയും നിങ്ങൾക്ക് ക്രിയാത്മകമായി സ്വാധീനിക്കാൻ കഴിയും നിങ്ങൾക്ക് നിഷേധാത്മകമായ സ്വാധീനത്തെ പോലും സ്വാധീനിക്കാൻ കഴിയും ഉദാഹരണത്തിന് എന്തെങ്കിലും ചെയ്യാൻ അവർ പ്രതികൂലമായി സ്വാധീനിക്കുന്ന ആളുകളെ വിപണനം ചെയ്യുക അവർ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ എറിയുന്ന ഒരു ഉൽപ്പന്നം വാങ്ങുന്നു പക്ഷേ നിങ്ങൾക്ക് ആളുകളെ ക്രിയാത്മകമായി സ്വാധീനിക്കാനും കഴിയും ഉദാഹരണത്തിന് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ ഞാൻ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു കൂടാതെ ഞാൻ നിങ്ങളെ തമാശകൾ നൽകി രസിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ ഞാൻ സ്വാധീനിക്കാനും ശ്രമിക്കുന്നു ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒപ്പം ഞാൻ പ്രേരിപ്പിക്കാനും ശ്രമിക്കുന്നു അതിനാൽ ഈ ലക്ഷ്യങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക തുടർന്ന് അവ നിങ്ങളുടെ പ്രസംഗത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക അത് വിനോദത്തിന് മാത്രമല്ല ഒന്നിനെക്കാൾ മറ്റൊന്നിന്റെ ചെലവിലല്ല അതിനാൽ അവയിൽ ചിലതെങ്കിലും അവർ സമയം പാഴാക്കിയിട്ടുണ്ടെന്നും മൂന്നോ നാലോ പ്രധാന പോയിന്റുകൾക്ക് ചുറ്റും നിങ്ങളുടെ സംസാര ഘടന എങ്ങനെ ക്രമീകരിക്കുമെന്നും പ്രേക്ഷകർക്ക് തോന്നും വാസ്തവത്തിൽ വാക്യങ്ങളുടെയോ കീവേഡുകളുടെയോ കാര്യത്തിൽ നിങ്ങൾ പ്രധാന പോയിന്റുകൾ ഓർമ്മിക്കുകയും കുറച്ച് കഥകളാൽ പ്രേക്ഷകർക്ക് താൽപ്പര്യമുണ്ടാക്കുകയും ചെയ്യുന്നു അതിനാൽ തുടക്കത്തിൽ മധ്യത്തിൽ അവസാനം ചെറിയ കഥകൾ ഉപയോഗിക്കുക തുടർന്ന് നിങ്ങളുടെ പ്രധാന പോയിന്റുകൾ ഒരൊറ്റ സ്ലൈഡിൽ ഒരു വാക്യത്തിൽ സംഗ്രഹിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ അത് എങ്ങനെ ചെയ്യും അതിനാൽ അടുത്ത പ്രഭാഷണത്തിന്റെ ആദ്യ സ്ലൈഡിൽ ഞാൻ മുമ്പത്തെ മുഴുവൻ പ്രഭാഷണവും സംഗ്രഹിച്ചുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം അതിനാൽ പ്രധാന പോയിന്റുകൾ ഓർമ്മിക്കാൻ പ്രേക്ഷകരെ സഹായിക്കുന്നതിനായി നിങ്ങൾ സംഗ്രഹിക്കുമ്പോൾ ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ ഒരു ചെറിയ പ്രസംഗം നൽകുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ സംസാരത്തിൽ പ്രേക്ഷകർക്ക് വീണ്ടും താൽപ്പര്യമുണ്ടാക്കുകയും നിങ്ങൾ അവസാനിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ എന്റെ പ്രഭാഷണം വീണ്ടും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് കുറിപ്പോടെ അവസാനിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു ഞാൻ എല്ലായ്പ്പോഴും ഒരുതരം പോസിറ്റീവ് ചിന്ത പോസിറ്റീവ് ഉദ്ധരണിയോടെ അവസാനിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ പ്രചോദിതരായി തുടരണം കാരണം പ്രേക്ഷകരെ പ്രചോദിതമായ വികാരത്തോടെ ഉപേക്ഷിക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ നിങ്ങളുടെ പ്രഭാഷണം കേട്ടപ്പോൾ നിങ്ങളുടെ പ്രഭാഷണത്തിലേക്ക് മടങ്ങിവരാൻ അവർക്ക് പ്രചോദനം തോന്നുന്നു അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അവതരണം നടത്താൻ പോകുമ്പോൾ നിങ്ങളുടെ പ്രസംഗം ആ രീതിയിൽ ക്രമീകരിക്കുക നിങ്ങൾ എന്തുചെയ്യണം എന്നത് വളരെ ലളിതമായ കാര്യമാണ് ഡെയ്ൽ കാർനെഗി പൊതുപ്രസംഗത്തെക്കുറിച്ചുള്ള തന്റെ പ്രശസ്തമായ പുസ്തകത്തിൽ പറഞ്ഞത് അത്തരത്തിലുള്ള മന്ത്രമാണ് നിങ്ങൾ അവരോട് പറയാൻ പോകുന്നത് എന്താണെന്ന് പ്രേക്ഷകരോട് പറയുക എന്നതാണ് ആദ്യ കാര്യം അതിനാൽ നിങ്ങൾ സംഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് അവരോട് ഹ്രസ്വമായി പറയുക ഇതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന മൂന്ന് പോയിന്റുകളാണ് നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് വിശദമായി വിവരിക്കാൻ അവരോട് പറയുക ഉദാഹരണങ്ങൾ കഥകളുള്ള ചിത്രീകരണങ്ങൾ സന്ദേശങ്ങളുള്ള കഥകൾ എന്നിവ ഉപയോഗിച്ച് നിങ്ങൾ അവസാനം അവരോട് പറയുക നിങ്ങൾ അവരോട് എന്താണ് പറഞ്ഞതെന്ന് അവരോട് പറയുക അതായത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും സംഗ്രഹിക്കുക അതിനാൽ തുടക്കത്തിൽ നിങ്ങൾ അവരെ തയ്യാറാക്കുകയും മധ്യത്തിൽ നിങ്ങൾ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വിശദമാക്കുന്നു അവസാനം നിങ്ങൾ വളരെ സംക്ഷിപ്തമായ ശക്തമായ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കുകയും തുടർന്ന് പ്രേക്ഷകരെ വിടുകയും ചെയ്യുന്നു അതിനാൽ ആരംഭിക്കുമ്പോൾ അവർ നിങ്ങളുടെ സംസാരം ഓർക്കും നിങ്ങൾ എങ്ങനെ അത് ശക്തിയായി ആരംഭിക്കുന്നു തുടർന്ന് നിങ്ങൾ ശക്തമായി അവസാനിപ്പിക്കുകയും വേണം നിങ്ങൾക്ക് ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന വളരെ വിവാദപരമായ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉദ്ധരണി ഉപയോഗിച്ച് ആരംഭിക്കാൻ കഴിയുന്ന കഥ ഉപയോഗിച്ച് തുറക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന എന്തെങ്കിലും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ലോകം അവസാനിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ എന്തുചെയ്യും അതിനാൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഈ ദുരന്തം സംഭവിക്കാൻ പോകുന്നു അതിനാൽ ഇതിനെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുകയും തുടർന്ന് നിങ്ങളുടെ സംസാരം ആരംഭിക്കുകയും ചെയ്യുക അതിനാൽ നിങ്ങൾക്ക് ശക്തമായി ആരംഭിക്കാൻ കഴിയും പ്രേക്ഷകർക്ക് വിഷയത്തിന്റെ പ്രസക്തി സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ നിങ്ങൾ ശക്തമായി ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കണം ഇതിനർത്ഥം നിങ്ങൾ സംസാരിക്കാൻ പോകുന്നതെന്തും അവർ എന്തുകൊണ്ടാണ് അവിടെയുള്ളതെന്നും അത് പ്രേക്ഷകരുമായി എങ്ങനെ ബന്ധപ്പെടുത്താമെന്നും പ്രേക്ഷകരോട് പറയണം എന്താണ് പ്രസക്തി ഒപ്പം പ്രേക്ഷകരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും നിങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും നിങ്ങൾക്ക് അവരെ വെല്ലുവിളിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ അവരെ ആശയക്കുഴപ്പത്തിലാക്കുകയും തുടർന്ന് അവരുടെ ജിജ്ഞാസ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതിനാൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ബന്ധം സ്ഥാപിക്കുന്നു അത് നിങ്ങൾക്ക് കൂടുതൽ സുഖകരവും ആത്മവിശ്വാസവും നൽകും ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ പോയിന്റ് പ്രസ്താവിക്കുമ്പോൾ വ്യക്തമായ ഭാഷ ഉപയോഗിക്കുക അതിനാൽ നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ അത് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഉച്ചാരണത്തിൽ അവ്യക്തതയും പിശകും ഉണ്ടാകരുതെന്ന് വളരെ വ്യക്തമായിരിക്കണം എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യ പ്രസ്താവന നിങ്ങളുടെ പോയിന്റിനെ പിന്തുണയ്ക്കുന്നതിന് വാക്കാലുള്ളതും ദൃശ്യപരവുമായ തെളിവുകൾ ഉപയോഗിച്ച് അവർക്ക് വളരെ വ്യക്തമായിരിക്കണം അതിനാൽ നിങ്ങൾ പറയേണ്ടത് മാത്രമല്ല നിങ്ങൾക്ക് പവർ പോയിന്റ് ഉപയോഗിക്കാൻ കഴിയുന്നതുപോലെ ഉപയോഗിക്കുക ചിത്രങ്ങൾ ഉപയോഗിക്കുക ഗ്രാഫുകൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു തുടർന്ന് നിങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഒരു സംഭവമോ കഥയോ ഉപയോഗിച്ച് നിങ്ങളുടെ പോയിന്റ് വർദ്ധിപ്പിക്കുക അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ആഖ്യാനങ്ങളുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക അതിനാൽ നിങ്ങളിൽ മിക്കവരും എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കഥകൾ ഇതുവരെ നിങ്ങൾ ഓർക്കുന്നവയാണെന്നും നിങ്ങൾക്ക് ആശയവുമായി വളരെ വേഗത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുമെന്നും ഫീഡ്ബാക്ക് നൽകി അതിനാൽ ചെറിയ കഥകൾക്ക് ഒരു യുക്തിസഹമായ പരിവർത്തനം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത പോയിന്റിലേക്കുള്ള പാലം വികസിപ്പിക്കാൻ ശ്രമിക്കുക ഒരു ആശയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടരുത് അതിനാൽ കണക്റ്റീവുകൾ ഉപയോഗിക്കുക അതിനാൽ ഞാൻ അഞ്ച് ഇനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പറയാം തുടർന്ന് നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറയും അതിനാൽ ഇത് വിപരീതമാണെങ്കിൽ ഒന്ന് വീണ്ടും കണക്റ്റീവുകൾ ഉപയോഗിക്കുന്നു എന്നിരുന്നാലും അതിനാൽ പ്രേക്ഷകർക്ക് ഒരു യുക്തിസഹമായ പരിവർത്തനം നൽകുക തുടർന്ന് അദ്ദേഹം ഈ ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഈ പോയിന്റ് വൈരുദ്ധ്യമുണ്ടാക്കാൻ പോകുന്നു കാരണം അദ്ദേഹം എന്നിരുന്നാലും പറയുന്നു അതിനാൽ അദ്ദേഹം പരസ്പരവിരുദ്ധമായ ഒരു വീക്ഷണം കൊണ്ടുവരികയാണ് നിങ്ങൾ കൂടുതൽ പോയിന്റുകൾ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പറയുമെന്ന് അവർക്കറിയാം അതിനാൽ യോജിപ്പ് നൽകുക ഓ അവൻ എന്തോ പറയാൻ തുടങ്ങിയെന്ന് അവർക്ക് അത് എന്തോ പറയുമ്പോൾ അതിന്റെ അവസാനം ചിതറിക്കിടക്കുന്നത് എല്ലാ ശബ്ദവും പോലെയായിരുന്നു പക്ഷേ അപ്പോൾ ഒന്നും അർത്ഥമാക്കുന്നില്ല നിങ്ങളുടെ പോയിന്റുകൾ സംഗ്രഹിച്ച് നിങ്ങളുടെ നിഗമനം പ്രസ്താവിക്കുകയും അത് നിങ്ങളുടെ പ്രേക്ഷകർക്ക് പ്രസക്തമാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ അടയ്ക്കും അതിനാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം ഇത് ആരംഭിച്ചതെന്ന് അവരോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രേക്ഷകർക്ക് പ്രസക്തമാക്കാൻ കഴിയും അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തയോടെ നിങ്ങൾക്ക് ഇത് വീണ്ടും ഉപേക്ഷിച്ച് അവരെ അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും തുടർന്ന് ദൈനംദിന ജീവിതത്തിൽ ഈ പ്രവർത്തനം തുടരുന്നത് എത്രത്തോളം പ്രസക്തമാണെന്ന് കാണിക്കുകയും ചെയ്യാം ഈ സെഷനെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ചിന്തയോടെ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കട്ടെ ഇത് സിനിമകളിൽ ഈ സൂപ്പർമാൻ സീരീസ് ആദ്യമായി അവതരിപ്പിച്ച നടൻ ക്രിസ്റ്റഫർ റീവിൽ നിന്നുള്ളതാണ് തുടർന്ന് നിങ്ങളെ വളരെ സ്വാധീനമുള്ള ഒരു പൊതു പ്രഭാഷകനായി നിർമ്മിക്കുന്നതിൽ ഇത് നിങ്ങൾക്ക് പ്രസക്തമാണ് അവൻ പറയുന്നത് നോക്കൂ നമ്മുടെ പല സ്വപ്നങ്ങളും ആദ്യം അസാധ്യമാണെന്ന് തോന്നുന്നു നമ്മുടെ പല സ്വപ്നങ്ങളും ആദ്യം അസാധ്യമാണെന്ന് തോന്നുന്നു അതിനാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ ഒരു പ്രഭാഷണം നടത്താനുള്ള സ്വപ്നം പോലും അസാധ്യമാണെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു അത് സാധ്യമല്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു തുടർന്ന് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുമ്പോൾ ഞാൻ മൂന്ന് മിനിറ്റ് പ്രഭാഷണത്തോടെ ആരംഭിക്കും ഞാൻ ഒരു മിനിറ്റ് വേഗത്തിൽ എന്തെങ്കിലും സംസാരിക്കും അപ്പോൾ അവർ അസംഭവ്യമാണെന്ന് തോന്നുന്നു അവിശ്വസനീയമായത് അല്പം സാധ്യമാണ് പക്ഷേ പൂർണ്ണമായും അസാധ്യമല്ല ഒരിക്കൽ നിങ്ങൾ അത് ചെയ്യാൻ തുടങ്ങുകയും തുടർന്ന് അത് ദൃശ്യവൽക്കരിക്കുകയും ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ ഇച്ഛാശക്തി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിശ്ചയദാർഢ്യമുള്ളവരായിത്തീരുമ്പോൾ ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ നിലവിലുള്ള ചിന്താരീതിയെ ചെറുതായി തകർക്കാൻ നിങ്ങൾ സ്വയം പ്രേരിപ്പിക്കുകയും നിങ്ങളെയും നിങ്ങളുടെ സ്വന്തം പെരുമാറ്റത്തെയും വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതിനാൽ അനിവാര്യമായത് സംഭവിക്കും അതിനാൽ നിങ്ങൾ പൊതു പ്രഭാഷകനാകുമെന്ന് തീരുമാനിക്കുകയും തുടർന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയദാർഢ്യമുള്ളവരായി മാറുകയും നിങ്ങളുടെ ഭയത്തെ മറികടന്ന് ഒന്നിനുപുറകെ ഒന്നായി അവതരണം നൽകുകയും ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് സ്വാഭാവികമായ ഒരു കാര്യമായി മാറുന്നു അതിനാൽ ആ ചിന്തയോടെ വാക്കാലുള്ള അവതരണത്തിലൂടെ വളരെ ശക്തമായ ഒരു പൊതു പ്രഭാഷകനാകാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്ത പ്രഭാഷണത്തിൽ നിങ്ങൾ ഈ അവതരണം നൽകാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഏതുതരം ശരീരഭാഷ ഉണ്ടായിരിക്കണം എന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു അത് വീണ്ടും തുല്യ പ്രാധാന്യമുള്ളതാണ് എന്നാൽ ഇപ്പോൾ സ്വപ്നം കാണുക തുടർന്ന് ആ ചിന്തയോടെ നിങ്ങൾ ഒരു വിജയകരമായ പൊതു പ്രഭാഷകനാകുമെന്ന് സങ്കൽപ്പിക്കുക